എല്ലാവർക്കും സുപ്രഭാതം എൻ പി ടി എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയ സോഫ്റ്റ് സ്കിൽസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ലെക്ചറുകളുടെ ശ്രേണിയിൽ ഇപ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട നൈപുണ്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ ലോകത്ത് നിങ്ങളെല്ലാവരും നിലനിൽക്കേണ്ടതിനാൽ എഴുത്തിന് അതിൻറെതായ പ്രാധാന്യമുണ്ട് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ വ്യത്യസ്ത രീതികളിൽ പങ്ക് വഹിക്കേണ്ടതിനാൽ എഴുത്തുമായി ബന്ധപ്പെട്ട കഴിവുകളെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം കഴിഞ്ഞ പാഠഭാഗത്തിൽ എഴുത്ത് കഴിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു ബിസിനസ്സ് ലോകത്ത് കാര്യങ്ങൾ സ്പഷ്ടമാക്കാതിരിക്കാൻ ഒരാൾക്ക് എങ്ങനെ ഭാഷ ഉപയോഗിക്കാമെന്നും നാം സംസാരിച്ചു ബിസിനസ്സ് ലോകത്ത് നിങ്ങളുടെ റോളുകൾ വ്യത്യസ്തമാകുമെന്നതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത എഴുത്ത് ജോലികൾ ലഭിക്കും ഈ ഡിജിറ്റൽ ലോകത്ത് എഴുത്തിന് എന്താണ് പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും എന്നാൽ കമ്പ്യൂട്ടറിൻറെ സഹായത്തോടുകൂടി ആണെങ്കിലും എഴുതേണ്ടത് ആവശ്യമാണ് വിവിധ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുവാനായി എഴുതുവാനുള്ള നൈപുണ്യം എപ്രകാരം ഉപയോഗിക്കണമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ക്രമീകരിക്കുമ്പോൾ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നതിനായി നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അനുവദനീയമായ രീതികൾ കണക്കിലെടുത്ത് അത് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഈ ബിസിനസ്സ് രചനയുടെ വിവിധ തരങ്ങൾ ഏതെല്ലാമാണ് ഈ ഡോക്യുമെൻറ്റുകൾ ഫലപ്രദമായി എഴുതുവാൻ നിങ്ങൾ എന്തുചെയ്യണം ആദ്യത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ബിസിനസ് കത്തുകൾ ബിസിനസ് മേഖലയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ വിൽക്കുക വാങ്ങുക ഓർഡർ ചെയ്യുന്ന എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ചില അവസരങ്ങളിൽ പണം അടയ്ക്കുന്നത് സംബന്ധിച്ച് ആളുകളെ ഓർമിക്കേണ്ടതുണ്ട് ഇതിൽ ഏതു സാഹചര്യം ആണെങ്കിലും ഇത്തരമൊരു സന്ദേശം ക്രമീകരിക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് യുവാക്കൾ പോലും ചിന്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഒരു പ്രൊഫഷണൽ ടോൺ അഥവാ സ്വരം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ കത്തുകളിൽ നിന്ന് വിഭിന്നമാണ് ബിസിനസ് കത്തുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇത്തരം കത്തുകൾ ക്രമീകരിക്കേണ്ടതിനാൽ ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് ബിസിനസ് കത്തുകളെ കുറിച്ച് പിന്നീട് ഒരു പ്രത്യേക ചർച്ച ഉണ്ടായിരിക്കും അടുത്തത് റിപ്പോർട്ടുകളാണ് ഓർഗനൈസേഷൻറെയും ഉദ്യോഗസ്ഥരുടെയും കാഴ്ചപ്പാട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് റിപ്പോർട്ടുകൾ ഓർഗനൈസേഷൻറെ ആവശ്യമനുസരിച്ച് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് എഴുതേണ്ടി വരുമോ എന്ന് ചിന്തിക്കാം കാരണം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാൽ ലോകത്തുടനീളം യാത്ര ചെയ്യുമ്പോൾ അനവധി ഉത്തരവാദിത്വങ്ങളും വിവിധ തരക്കാരായ പ്രേക്ഷകരും നിങ്ങൾക്ക് ഉണ്ടാകും ആയതിനാൽ റിപ്പോർട്ടുകൾ ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ സ്വരം വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണം ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുന്നതാണ് അടുത്തത് വളരെ സുപരിചിതമായ മെമ്മോ എന്നതാണ് ഒരു ഓർഗനൈസേഷൻ ദൈനംദിന സംസാര വിഷയത്തിൻറെ ഭാഗമാണ് മെമ്മോ ഒരു ഓർഗനൈസേഷൻറെ ദൈനംദിന പ്രവർത്തനത്തിൽ ആവശ്യമായ ഹൃസ്വ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഹൃസ്വ ബിസിനസ് ആശയവിനിമയങ്ങൾ എന്നതിനെക്കുറിച്ചാണ് നാമിന്ന് പ്രധാനമായും സംസാരിക്കുന്നത് അതിനുശേഷം റിപ്പോർട്ട് സർക്കുലർ ഇലക്ട്രോണിക് മെയിൽ എന്നീ വിഷയങ്ങളിലേക്ക് കടക്കും ഇലക്ട്രോണിക് മെയിലുകളുടെ യുഗത്തിൽ നാം എഴുതേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും മെയിലുകൾ ഉപയോഗിക്കുവാൻ സാധ്യമല്ല വ്യത്യസ്തമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും കണക്കിലെടുത്തുകൊണ്ട് നാം ഇത് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ് വിവിധ തരക്കാരായ ആളുകൾ ഏതുതരത്തിലുള്ള എഴുത്താണ് താൽപര്യപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല എല്ലാ വ്യക്തികളും ഈമെയിലുകൾ ലഭിക്കുന്നതിൽ താല്പര്യപ്പെടുന്നില്ല എന്നാൽ എപ്രകാരം ഭംഗിയായി ഇമെയിൽ ക്രമീകരിക്കണം എന്നത് നാം അറിഞ്ഞിരിക്കണം ടെക്നിക്കൽ പ്രൊപ്പോസൽ റിസർച്ച് പേപ്പർ എന്നിവയും പിന്നീട് ചർച്ച ചെയ്യുന്നതാണ് എന്നാൽ ഇന്നത്തെ പാഠഭാഗത്ത് നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഹൃസ്വ ബിസിനസ് ആശയവിനിമയങ്ങൾ എന്ന വിഷയമാണ് ഇതിൽ ആദ്യത്തേത് മെമോ ആണ് മെമ്മോ എന്ന പദം നിങ്ങൾക്ക് പരിചിതമായിരിക്കും മെമ്മോ എന്ന വാക്ക് തന്നെ ചിലപ്പോൾ ചിലരെ പേടിപ്പെടുത്തുന്ന ആയിരിക്കാം എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ അത് ആയിരിക്കില്ല അവസ്ഥ മെമ്മോ എന്നത് ഓർഗനൈസേഷന് വേണ്ടി മാത്രമുള്ള വളരെ ചെറിയ ഒരു ഡോക്യുമെൻറാണ് ഇത് ഓർഗനൈസേഷനിലെ അംഗങ്ങൾക്കിടയിൽ മാത്രം നൽകുന്നതിനാൽ ഇതിനെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് വിളിക്കുന്നു ഒഫീഷ്യൽ ആയതും ബിസിനസ് റൈറ്റിംഗ് ഭാഗമായ മെമ്മോ ഓഫീസിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാകയാൽ മറ്റ് എഴുത്തുകളുടെ അത്രയും ഫോർമൽ അല്ലെങ്കിൽ ഔപചാരികമായിരിക്കുകയില്ല മെമ്മോ അനൌപചാരികം അഥവാ ഇൻഫോർമൽ ആയ വളരെ ചെറിയ ഒരു ഡോക്യുമെൻറാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഹ്രസ്വ മെമോയും മെമ്മോ റിപ്പോർട്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് മെമ്മോ ഒരു റിപ്പോർട്ടിൻറെ രീതിയിൽ എഴുതുമ്പോൾ അത് മെമ്മോ റിപ്പോർട്ടായിതീരും ഒരു മെമ്മോയുടെ ഫംഗ്ഷനുകൾ എന്തെല്ലാമാണ് മറ്റ് എല്ലാ തരത്തിലുള്ള ആശയവിനിമയം പോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ബിസിനസ് എളുപ്പമാക്കുന്ന മെമ്മോ ആശയവിനിമയത്തിൻറെ സുഗമമായ ഒഴുക്കിന് വലിയ പങ്കു വഹിക്കുന്നു ആശയവിനിമയം നടത്തുക എന്നത് മെമ്മോയുടെ പ്രധാന ലക്ഷ്യമാകയാൽ ബിസിനസ് ബന്ധങ്ങൾ ശക്തമാക്കുവാൻ സഹായിക്കുന്നു ആര് ആർക്കാണ് മെമോ എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം നാം ആദ്യം പറഞ്ഞതുപോലെ മെമ്മോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിസ്വപ്നമാണ് അയാൾക്ക് ഒരു മെമ്മോ ലഭിച്ചു എന്ന് മറ്റുള്ളവർ പറയുന്നത് നാം കേട്ടിട്ടുണ്ടാകും അങ്ങനെ പറയുമ്പോൾ അവരിൽ ഒരു ദേഷ്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മെമ്മോയുമായി ബന്ധപ്പെട്ട ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ളതിനാലാണ് ഇത് ചിലപ്പോഴൊക്കെ മെമോ ജോലിക്കാർക്ക് മുന്നറിയിപ്പ് നൽകുവാനായി ഉപയോഗിക്കുന്നു എന്നാൽ എല്ലായ്പ്പോഴും സ്ഥിതി അങ്ങനെ ആകണമെന്നില്ല മെമ്മോ എന്നതിന് മറ്റു ചില ഉപയോഗങ്ങളുമുണ്ട് മറ്റു ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായും ഇത് ഉപയോഗിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് മെമ്മോ സ്ഥിരീകരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ മുൻപ് നടത്തപ്പെട്ട ഒരു മീറ്റിങ്ങിൻറെ പുരോഗതിയെ കുറിച്ച് മെമ്മോയുടെ സഹായത്തോടുകൂടി ഉറപ്പാക്കുവാൻ കഴിയും ആകയാൽ മെമ്മോയുടെ ആദ്യത്തെ ഉദ്യമം കാര്യങ്ങളെ കൺഫോം സ്ഥിരീകരിക്കുക എന്നതാണ് ഒരു മീറ്റിംഗിൻറെ സംഭവങ്ങളെക്കുറിച്ചോ പുരോഗതിയെകുറിച്ചോ ഇത് യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കുന്നു ഒരു ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങൾ നിശ്ചലമാകുമ്പോൾ മെമ്മോയിലൂടെ നിർദ്ദേശങ്ങൾ അറിയിക്കാം നടപ്പിലാക്കുവാൻ സാധിക്കുന്ന നടപടികളെക്കുറിച്ച് മെമ്മോ ഒരു ധാരണ നൽകുന്നു ആയതിനാൽ മുന്നറിയിപ്പുകൾ നൽകുവാൻ മാത്രമല്ല മറിച്ച് വിവരങ്ങൾ അറിയിക്കുവാനും മെമ്മോ ഉപയോഗിക്കുന്നു ചില സാഹചര്യങ്ങളിൽ സ്ഥാപനങ്ങളിലെ ചില കാര്യങ്ങൾ താളം തെറ്റിയെക്കാം ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുവെന്നു വിവരിക്കുവാനായി മെമ്മോ ഉപയോഗിക്കാം ചിലപ്പോൾ ഇതുപോലുള്ള വിവരണങ്ങൾ ദൈർഘ്യമുള്ള റിപ്പോർട്ടുകൾ ആകുമ്പോൾ അതിനെ മെമ്മോ റിപ്പോർട്ട് എന്ന് വിളിക്കും ഓർഗനൈസേഷൻറെ പുതിയ പോളിസികൾ പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകുവാനായി മെമ്മോ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഡിഎ യിൽ ഉണ്ടായ ഉയർച്ച അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോളിസിയിൽ ഉണ്ടായ ഒരു മാറ്റം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുവാനും വ്യക്തമായ വിവരണം നൽകുവാനും മെമ്മോയിലൂടെ സാധ്യമാണ് ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ലാതെ വരുമ്പോൾ മെമ്മോയുടെ സഹായത്താൽ വ്യക്തമായ വിവരങ്ങൾ നൽകുവാൻ കഴിയും എന്നാൽ ഇതോടൊപ്പം മെമ്മോ വാണിംഗ് അഥവാ മുന്നറിയിപ്പുകൾ നൽകുന്നു ചില സമയങ്ങളിൽ ഒരു ഗുരുതരമായ സാഹചര്യം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഉദാഹരണത്തിന് ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് താമസിച്ചു വരുമ്പോൾ ചിലർ ഓഫീസിലെ ഉപകരണങ്ങൾ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ മെമ്മോ ഉപയോഗിക്കാം ഓഫീസിലെ ഫോട്ടോ കോപ്പിയർ മെഷീൻ അധികമായി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മുകളിൽ പറഞ്ഞ സാഹചര്യത്തിന് ഒരുദാഹരണമാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇത്തരം സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാനായി മെമ്മോ നൽകുന്നതിനായി നിങ്ങൾക്ക് തീരുമാനം എടുക്കാം കാരണം എപ്പോഴും നിങ്ങൾക്ക് മുഖാമുഖം ആശയവിനിമയം നടത്തുവാൻ സാധ്യമല്ല മാത്രമല്ല ചില കാര്യങ്ങൾ മുഖാമുഖം സംസാരിക്കുന്നത് ഉചിതമല്ല ആയതിനാൽ മെമ്മോ നൽകുന്നതാണ് ഇവിടെ ഉചിതം തികച്ചും അനൌപചാരികമായ സ്വരം ആയതിനാൽ ഇവ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കുകയില്ല എന്നാൽ മെമ്മോ തയ്യാറാക്കുമ്പോൾ ആളുകളെ വേദനിപ്പിക്കാത്ത രീതിയിൽ തയ്യാറാക്കുക അതുകൊണ്ടുതന്നെ മെമ്മോയിൽ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് അത് എപ്രകാരമാണ് തയ്യാറാക്കേണ്ടത് മെമ്മോ ഒരു കത്തിന് സമാനമാണെങ്കിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട് ആ വ്യത്യാസങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മെമ്മോയിൽ അഭിവാദ്യം ഉണ്ടായിരിക്കുകയില്ല ഒരു കത്ത് എഴുതുന്ന രീതിയിൽ ആയിരിക്കുകയില്ല അത് എഴുതുന്നത് ഒരു കത്തിൽ സലുടേഷൻ അഥവാ അഭിവാദ്യം കോംപ്ലിമെന്ററി ക്ലോസ് എന്നിവ ഒഴിച്ചുകൂടാനാവാത്തതാണ് കത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കൂടുതൽ വിശദീകരിക്കാവുന്നതാണ് എന്നാൽ ഒരു മെമ്മോയിൽ ഈവക കാര്യങ്ങൾ ആവശ്യമില്ല ഇത് അനൌപചാരികം ആണെങ്കിലും വളരെ ഡയറക്ട് അഥവാ നേരിട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയാണ് മെമ്മോ നിങ്ങളാണ് എഴുതിയത് എന്ന് വ്യക്തമാക്കുന്നതിനായി നിങ്ങളുടെ പേര് ചുവടെ രേഖപ്പെടുത്തുക മെമ്മോ ഹ്രസ്വമായിരിക്കണം പക്ഷേ അത് വളരെ വ്യക്തമായിരിക്കണം അതായത് പറയേണ്ട കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തണം കൂടാതെ സന്ദേശത്തിന്റെ അവസാനത്തിൽ അത് എഴുതിയ വ്യക്തിയുടെ പേര് വലതുവശത്തായി എഴുതണം ഭൂരിഭാഗം ഓർഗനൈസേഷനുകളിലും തങ്ങളുടേതായ മെമ്മോ ഫോർമാറ്റ് ഉണ്ടാകും അതിൽ ലെറ്റർ ഹെഡ് ടു ആൻഡ് ഫ്രം to from എന്നിവയുണ്ടാകും ചിലപ്പോൾ അതിൽ ചില വിവരങ്ങൾ പൂരിപ്പിച്ചാൽ മാത്രം മതിയാകും ബാക്കി പൊതുവായ വിവരങ്ങൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്തുതന്നെയായിരുന്നാലും മെമ്മോയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടാകും കൂടാതെ അനൌപചാരികമായ ആശയവിനിമയത്തിൻറെ സ്വരം മെമ്മോയിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് മെമ്മോയുടെ ഫോർമാറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഒരു പ്രിൻറ്ഡ് മെമ്മോ ആണെങ്കിൽ അതിൽ ലെറ്റർ ഹെഡ് ഉണ്ടായിരിക്കും ലെറ്റർ ഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിൻറെ പേരും മറ്റ് വിവരങ്ങളും പേപ്പറിന് മുകളിൽ മധ്യഭാഗത്തായി നൽകിയിരിക്കുന്നതാണ് അതോടൊപ്പം ഇടതുവശത്തായി ആര് ആർക്ക് എഴുതുന്നു എന്ന് കാണിക്കുന്ന ടു ആൻഡ് ഫ്രം ഉണ്ടായിരിക്കും കഴിഞ്ഞ പാഠഭാഗത്തിൽ പറഞ്ഞതുപോലെ ഈ ഡോകുമെൻറ് തയ്യാറാക്കുന്നതിനു മുമ്പായി വായനക്കാരുടെ പശ്ചാത്തലം മനസ്സിലാക്കുക ഒരു മെമ്മോ തയ്യാറാക്കുമ്പോൾ അത് ആർക്കാണ് നൽകുന്നതെന്ന് അറിഞ്ഞിരിക്കണം മെമ്മോയിലുള്ള ടു വിഭാഗത്തിൽ ആർക്കാണോ നൽകുന്നത് അത് രേഖപ്പെടുത്തുക ചിലപ്പോൾ അത് മുഴുവൻ ജോലിക്കാർക്കോ അല്ലെങ്കിൽ ലേബർ വിഭാഗത്തിൽ മാത്രമുള്ളവർക്കോ അക്കാദമിക വിഭാഗത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ ഫിനാൻസ് വിഭാഗത്തിലുള്ളവർക്കോ ആയിരിക്കാം ആകയാൽ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നതെന്ന് കൃത്യമായി നിർദിഷ്ട സ്ഥാനത്ത് രേഖപ്പെടുത്തുക നിങ്ങൾ മെമ്മോ എഴുതുന്നതിനാൽ നിങ്ങളുടെ വിവരങ്ങൾ ഫ്രം ഭാഗത്ത് രേഖപ്പെടുത്തുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേരിനു പകരം പദവിയാണ് രേഖപ്പെടുത്തേണ്ടത് ഫിനാൻസ് മാനേജർ ഡീൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ എന്നിങ്ങനെ നിങ്ങളുടെ പദവി രേഖപ്പെടുത്തുക അതിനുശേഷം വലതുഭാഗത്തായി ഡേറ്റ് റഫറൻസ് എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ തയ്യാറാക്കുന്ന മെമ്മോ ചിലപ്പോൾ ആദ്യമായുള്ളതോ നേരത്തെ നൽകിയ മെമ്മോകളുടെ തുടർച്ചയോ ആകാം വിവരങ്ങൾ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന തുടർച്ചയായ പ്രക്രിയായതിനാലാണ് റഫറൻസ് നമ്പർ എഴുതുന്നത് അടുത്തതായി ഉള്ളത് സബ്ജക്ട് ലൈൻ ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായ സബ്ജക്ട് ലൈൻ മധ്യഭാഗത്തായാണ് എഴുതേണ്ടത് ഈ കാലഘട്ടത്തിൽ ആളുകൾ വലിയ തിരക്കിലാണ് സമയകുറവാണ് ഭൂരിഭാഗം ആളുകളുടേയും പ്രശ്നം നിങ്ങൾക്ക് ഒരു മെമ്മോ ലഭിക്കുമ്പോൾ അത് ചിലപ്പോൾ പേടിപ്പെടുത്തുന്നതാണെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയുവാനുള്ള ആകാംഷ ഉണ്ടായിരിക്കും എന്നാൽ ദീർഘമായ മുഴുവൻ കാര്യങ്ങൾ വായിക്കുവാനുള്ള ക്ഷമ ഉണ്ടായിരിക്കുകയില്ല നേരത്തെ തന്നെ നടത്തപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുത്തതിനാലോ മേൽ ഉദ്യോഗസ്ഥനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാലോ റഫറൻസിലൂടെ അല്ലെങ്കിൽ സബ്ജക്ടിൻറെ സഹായത്തോടുകൂടി മെമ്മോയുടെ ഉള്ളടക്കം മനസ്സിലാക്കാം സബ്ജക്ട് ലൈനിന് ശേഷം മറ്റ് അഭിവാദ്യങ്ങൾ ഇല്ലാതെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുക ഇവിടെ ആദ്യ വാചകത്തിലൂടെ തന്നെ വിഷയം അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് കടക്കുക തുടർന്നുള്ള വരികളിൽ പ്രധാന വിഷയം അല്ലെങ്കിൽ ആ പ്രശ്നത്തെ വിവരിക്കുക വിവരണം എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വിവരണമല്ല മറിച്ച് ചെറിയ രീതിയിലുള്ള വിവരണം നാം തയ്യാറാക്കുന്ന മെമ്മോ വളരെ സംക്ഷിപ്തവും വ്യക്തമാണെന്ന് ഉറപ്പുവരുത്തുക മെമ്മോ അവസാനിപ്പിച്ചതിനു ശേഷം അവസാനമായി നിങ്ങളുടെ പേര് രേഖപ്പെടുത്തുക മെമോ നൽകുന്ന വ്യക്തി നിങ്ങൾ ആണെന്ന് കാണിക്കുവാനാണ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് കൂടാതെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് അതിൻറെ ഒരു കോപ്പി നൽകുന്നതിനായി ഇടതുഭാഗത്തായി സിസി രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് മെമ്മോയുടെ ഫോർമാറ്റ് ആകയാൽ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കി ഇനിയും എപ്രകാരം ഇത് എഴുതണം എന്ന് അറിയുവാൻ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടാക്കും കാരണം നാം മെമ്മോയുടെ ഭാഷാ സ്വരം അതായത് അനൌപചാരികമായ സൌഹൃദത്തോടെ കൂടിയുള്ള സ്വരം എന്നിവയെക്കുറിച്ച് അധികമായി ചർച്ചചെയ്തു അതോടൊപ്പം അതിൽ ചെറിയ രീതിയിൽ ഫോർമാലിറ്റി അഥവാ ഔപചാരികത ഉണ്ടാകണം എന്നും പറഞ്ഞു അതു കൊണ്ടുതന്നെ ഇവിടെ നൽകിയിരിക്കുന്ന സാമ്പിൾ മെമ്മോ നമുക്ക് പരിശോധിക്കാം ഇവിടെ ഏറ്റവും മുകളിൽ മധ്യഭാഗത്തായി ഓർഗനൈസേഷൻ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു കാണാം എന്നാൽ അതിനുശേഷം ഇൻസൈഡ് അഡ്രസ്സ് ആയിരിക്കുകയില്ല മറിച്ച് മുൻപ് പറഞ്ഞതുപോലെ ടു ആൻഡ് ഫ്രം എന്നീ വിഭാഗങ്ങൾ ഉണ്ടാകും ഇവിടെ ഇത് എല്ലാ വിഭാഗങ്ങളുടെയും തലവന്മാർക്കായി തയ്യാറാക്കിയിട്ടുള്ള മെമ്മോയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഡീൻ അഡ്മിഷൻ ആണ് അതുകൊണ്ടുതന്നെ ഇത് അഡ്മിഷൻ നടപടിക്രമം അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തന്നെയാകാം വലതുഭാഗത്തായി റഫറൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് ഇതൊരു റഫറൻസോടു കൂടിയ മെമ്മോ ആണെന്നും വ്യക്തമാക്കുന്നു കൂടാതെ അവിടെ തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം മധ്യഭാഗത്തായി നൽകിയിരിക്കുന്ന അതാണ് സബ്ജക്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ മെമ്മോ തയ്യാറാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ അത് ഇ മെയിലിലൂടെ എല്ലാവർക്കും അയച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും നമ്മുടെ ഉള്ളടക്കത്തെക്കുറിച്ച് പരിശോധിക്കാം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭാഷ അനൌപചാരികമായിരിക്കണം ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവഡ് എന്ന് പറഞ്ഞ് തികച്ചും നിഷ്പക്ഷം ആയിരിക്കുന്ന ഭാഷയാണ് ഈ സാമ്പിളിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നാൽ മുൻപോട്ടു നീങ്ങുമ്പോൾ സ്ഥാപനത്തിലെ ക്യാമ്പസ് പ്ലെയിസ്മെൻറ് അതൃപ്തികരമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി അഡ്മിഷനെ ബാധിച്ച ഈ പ്രശ്നത്തെക്കുറിചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ കാര്യം എല്ലാ വിഭാഗങ്ങളുടെയും തലവൻമാരോട് ആത്മവിശ്വാസം ബലപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ഇനിയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഭാഷ പരിശോധിക്കാം ഇറ്റ് ഈസ് ഹൈ ടൈം വി റിയലൈസ്ഡ് എന്ന പ്രയോഗത്തിലൂടെ വായനക്കാരുമായി ഒരു ഊഷ്മളമായ ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുന്നു കാരണം എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാധിക്കൂ അടുത്ത വരിയിൽ എല്ലാ വകുപ്പുകൾക്കും ഫാക്കൽറ്റി വികസന പരിശീലനം നിർദ്ദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഓരോ മേഖലയിൽനിന്നുള്ള പരിശീലന വിദഗ്ധരുടെ പേരുകൾക്കും പരിശീലനം നിർദ്ദേശങ്ങളും അയയ്ക്കുക എന്ന് അറിയിക്കുന്നു പരിശീലന പരിപാടിക്ക് രൂപം നൽകുന്നതിനുമുമ്പ് എല്ലാ വകുപ്പ് മേധാവികളെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന വാചകത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഐ വുഡ് ലൈക് ടു മീറ്റ് എന്ന പ്രയോഗത്തിലെ ടോൺ ശ്രദ്ധിക്കുക ഇത് ഒരു സാമ്പിൾ മെമ്മോ മാത്രമാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വിവിധ കാര്യങ്ങൾക്ക് സഹായകരമാകുന്ന മെമ്മോകൾ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്ന മെമ്മോയുടെ അവസാന ഭാഗത്തായി ഡീൻ അഡ്മിഷൻ നൽകുന്ന അറിയിപ്പാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതേ തുടർന്ന് അനുരാഗ് ജോഷി എന്ന് അദ്ദേഹത്തിൻറെ പേര് നൽകിയിരിക്കുന്നു ഈ വിവരങ്ങൾ റെക്കോർഡിൽ സൂക്ഷിക്കുന്നതിനായി ഡീൻ അക്കാദമിക്ക്സ് ഡീൻ പ്ലേസ്മെൻറ് എന്നിവർക്ക് സിസി നൽകിയിരിക്കുന്നു ഈ സാംപിളിന്റെ സഹായത്തോടുകൂടി എപ്രകാരം ഒരു മെമ്മോ തയ്യാറാകണമെന്നും അതിൻറെ മറ്റ് ഫംഗ്ഷനുകൾ എന്തെല്ലാമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉണ്ടാകുന്നു എന്നതിനാൽ വ്യത്യസ്തമായ രീതികളിൽ ഇത് തയ്യാറാക്കേണ്ടി വരും അപ്പോൾ എഴുതുന്ന രീതിയും വ്യത്യസ്തമാകും എഴുത്തിൽ വ്യത്യസ്ത ഫോർമാറ്റുകളും ലഭ്യമാണ് ചിലപ്പോൾ നമുക്ക് മെമ്മോ റിപ്പോർട്ടുകളും ലെറ്റർ റിപ്പോർട്ടുകളും ഉണ്ടാകും ഇവരണ്ടും റിപ്പോർട്ടുകളുടെ വിവിധ പതിപ്പുകളാണ് ഫോർമൽ റിപ്പോർട്ടുകളെ കുറിച്ച് നാം കൂടുതലായി ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ ഇൻഫോർമൽ റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇൻഫോർമൽ അഥവാ അനൌപചാരികം എന്ന് പറയുമ്പോൾ മെമ്മോയിൽ നിങ്ങൾ അത് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ചിലപ്പോൾ നമ്മൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് ചില പരിപാടികളെക്കുറിച്ച് സംഭവങ്ങളെ കുറിച്ചോ ഹൃസ്വമായ രീതിയിൽ ഓഫീസർമാർ നമ്മളോട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ചില സാഹചര്യങ്ങളിൽ ആവശ്യമാണ് ഇത്തരം ലെറ്റർ റിപ്പോർട്ടുകൾ അവർ എഴുതി തയ്യാറാക്കി സമർപ്പിക്കണം ലെറ്റർ റിപ്പോർട്ട് എന്നത് റിപ്പോർട്ടിൻെറ തന്നെ ഒരു ഭാഗമാണ് ലെറ്റർ എന്ന പദം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു കത്തെഴുതുന്ന രീതിയിൽ ആയിരിക്കും തയ്യാറാക്കുന്നത് എന്നാൽ എന്തായിരിക്കും ഇതിൻറെ ഉള്ളടക്കം ഒരു ബിസിനസ് ലെറ്ററിൻറെ ഫോർമാറ്റിൽ തയ്യാറാക്കുന്നു എങ്കിലും സ്വാഭാവികമായി അതിൽ അനൌപചാരികതയും ഔപചാരികതയും ഉണ്ടാകും അതുകൊണ്ടുതന്നെ സ്ഥാപനത്തിൻറെ അകത്തും പുറത്തും നൽകാവുന്നതാണ് ഇവിടെ വിശദാംശങ്ങൾ നൽകുവാനുള്ള ഇടം അല്ലെങ്കിൽ സാധ്യത ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത അതുകൊണ്ടുതന്നെ ഒരു റിപ്പോർട്ട് രീതിയിലാണെങ്കിലും ഒരു ആമുഖ ഖണ്ണിക ഒരു തരത്തിലുള്ള ഒരു ഡിസ്കഷൻ അഥവാ ചർച്ച കുറച്ച് ഇല്ലുസ്ട്രേഷൻ അഥവാ ചിത്രീകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ഔപചാരിക റിപ്പോർട്ടിലുള്ള എല്ലാ ഫോർമാലിറ്റികൾ അഥവാ ഔപചാരികതകൾ ഇതിൽ ഉണ്ടാകില്ല വിശകലനം ചെയ്യുന്ന രീതിയിലാണ് ഇത് എഴുതുന്നത് ആയതിനാൽ നിങ്ങൾ പങ്കെടുത്ത ഒരു കോൺഫറൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടിയെക്കുറിച്ച് അവ എപ്രകാരം ഭംഗിയായി നടത്തപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ലെറ്റർ റിപ്പോർട്ടുകൾ തിരഞ്ഞെടുത്താൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ കഴിയും ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായി മെമ്മോയ്ക്ക് സമാനമായ രീതിയിൽ ഇതിനും ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇതിൽ മുകളിൽ മധ്യഭാഗത്തായി ലെറ്റർ ഹെഡ് തീയതി എന്നിവ ഉണ്ടാകും അതോടൊപ്പം ഇൻസൈഡ് അഡ്രസ്സ് ഉണ്ടാകും എന്നതാണ് മറ്റൊരു വ്യത്യാസം ഇതിന് ഒരു കത്തിൻറെ ഫോർമാറ്റ് ഉള്ളതിനാൽ ഇൻസൈഡ് അഡ്രസ്സ് രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഓർഗനൈസേഷനുകൾക്ക് കത്തുകൾക്കായി തങ്ങളുടേതായ ഫോർമാറ്റുകൾ ഉണ്ടാക്കാം അതിനെക്കുറിച്ച് നാം പിന്നീട് കൂടുതലായി ചർച്ച ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുവദനീയമായ ഫോർമാറ്റ് മനസ്സിലാക്കുക ചില സ്ഥാപനങ്ങൾ കത്തെഴുതുന്നത് പൊതുവായ ശൈലി അവലംബിക്കും എന്നാൽ മറ്റു ചില സ്ഥാപനങ്ങൾ ഫുൾ ബ്ലോക്ക് ഫോർമാറ്റ് ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെടാം ഫുൾ ബ്ലോക്ക് ഫോർമാറ്റ് സംബന്ധിച്ച് നാം പിന്നീട് ചർച്ച ചെയ്യുന്നതാണ് ഇൻസൈഡ് അഡ്രസ്സിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഭാഗമായ സബ്ജറ്റ് ലൈൻ Subject line എഴുതിയതിനു ശേഷം അഭിവാദ്യം രേഖപ്പെടുത്തുക സലൂടേഷൻ അഥവാ അഭിവാദ്യം വളരെ ഔപചാരികമായി തന്നെ രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ് മറ്റു കത്തുകളിലെ പോലെ തന്നെ ഡിയർ സർ എന്ന പ്രയോഗം ഇവിടെയും ഉപയോഗിക്കാം അഭിവാദ്യത്തിന് ശേഷം കത്തിലെ പ്രധാന ഉള്ളടക്കം ആരംഭിക്കുന്നു ഒരു കത്തിൻറെ പ്രധാന ഉള്ളടക്കത്തിന് ഉണ്ടായിരിക്കേണ്ട എല്ലാം ആവശ്യകതകളും റിപ്പോർട്ടിനും ഉണ്ടായിരിക്കും എന്നാൽ അത് വളരെ ഹൃസ്വമായിരിക്കുമെന്ന് മാത്രം ആകയാൽ ഇതിന് 2 മുതൽ 3 ഖണ്ഡികകൾ വരെ ഉണ്ടാകാം ആദ്യം ഒരു ആമുഖ ഖണ്ഡികയും അതിനുശേഷം വിഷയത്തിലേക്ക് കടക്കുന്ന ഖണ്ഡികയും ഉണ്ടാകും അഭിവാദ്യ ത്തിന് ശേഷമുള്ള കത്തിലെ പ്രധാന ഉള്ളടക്കത്തിൽ ഒരു ചെറിയ ആമുഖവും അതിനുശേഷം പ്രധാന ഉള്ളടക്കവും രേഖപ്പെടുത്തണം ഉദാഹരണത്തിന് ഫാക്കൽറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് എഴുതണം റിസൾട്ട് വിഭാഗം പോലെ അവസാനമായി നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക ഒരു കത്തിന് സമാനമായി കോംപ്ലിമെൻററി ക്ലോസോടുകൂടി അവസാനിപ്പിക്കുക ഒരു കത്ത് ചുരുക്കുന്നതിനു മുമ്പായി കോംപ്ലിമെൻററി ക്ലോസായ താകിംഗ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് സിൻസിയർലി യുവേഴ്സ് ട്രൂലി എന്നീ പ്രയോഗങ്ങൾ ഏതു വ്യക്തിയാണോ അഭിസംബോധന ചെയ്യുന്നത് അതനുസരിച്ച് സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുക അവസാനമായി സിഗ്നേച്ചർ ലൈനിൽ നിങ്ങളുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തുക കൂടാതെ എന്തെങ്കിലും രേഖകൾ കത്തിനൊപ്പം ചേർക്കണമെങ്കിൽ കയ്യൊപ്പിന് ശേഷമുള്ള എൻക്ലോഷർ വിഭാഗത്തിൽ രേഖപ്പെടുത്തുക അവയുടെ പേജ് നമ്പറും അതോടൊപ്പം എഴുതുക അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ നമ്പർ രേഖപ്പെടുത്തുന്നത് അല്ലാത്തപക്ഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് നിർദ്ദിഷ്ഠ രേഖ അവിടെ ഇല്ലാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ചിലപ്പോൾ നാം ഇത് എൻക്ലോസ് ചെയ്യാറില്ല നിങ്ങളുടെ കണ്ടെത്തലുകളെ മനസ്സിലാക്കുവാൻ ലെറ്റർ റിപ്പോർട്ടിൻറെ സ്വീകർത്താവിന് താൽപര്യമുണ്ടാകും ആ കണ്ടെത്തലുകൾക്ക് തെളിവായാണ് ചില കാര്യങ്ങൾ നാം എൻക്ലോസ് ചെയ്യുന്നത് ലെറ്റർ റിപ്പോർട്ട് മെമ്മോ റിപ്പോർട്ട് എന്നിവ തമ്മിലുള്ള വ്യത്യാസം അറിയുവാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നു കാരണം ഇവിടെ നിങ്ങൾക്ക് വിവരിക്കുക മാത്രമല്ല മറിച്ച് കാര്യങ്ങൾ അറിയിക്കുക കൂടി ചെയ്യാം അതായത് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് ഇതിലൂടെ സംസാരിക്കുവാൻ സാധിക്കും ഒരു ലെറ്റർ റിപ്പോർട്ട് മെമ്മോയെക്കാളും ദൈർഘ്യം ഉള്ളതായിരിക്കും ദൈർഘ്യം ഇവയുടെ പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നാണ് ഉദാഹരണത്തിന് ഒരു മെമ്മോ ഒരു പേജ് ദൈർഘ്യം ഉള്ളതാണെങ്കിൽ ലെറ്റർ റിപ്പോർട്ട് രണ്ടു പേജുകൾ വരെ ആകാം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അത് 3 പേജുകൾ വരെ ആകാം റിപ്പോർട്ട് എന്നൊരു പേര് അതിൽ ഉള്ളതിനാൽ ഒരുപാട് ദൈർഘ്യമുള്ള ആകണമെന്നില്ല റിപ്പോർട്ടിനെക്കുറിച്ചുള്ള പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ റിപ്പോർട്ടുകളിൽ വ്യാഖ്യാനത്തിന് ധാരാളം സാധ്യതകളുണ്ടെന്നും നിങ്ങളുടെ കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്നതിന് നിങ്ങൾക്ക് അവിടെ തെളിവുകൾ ഉൾപ്പെടുത്താം എന്നും മനസ്സിലാക്കാം ഒരു ലെറ്റർ റിപ്പോർട്ട് സാധാരണ റിപ്പോർട്ടിനെ അപേക്ഷിച്ച് അനൌപചാരികം ആയിരിക്കും അതിനെ മെമ്മോയുമായി താരതമ്യം ചെയ്യുമ്പോൾ മെമ്മോ കുറച്ചുകൂടി അനൌപചാരികമായിരിക്കും ലെറ്റർ റിപ്പോർട്ട് സ്ഥാപനത്തിൻറെ അകത്തും പുറത്തും കൈ മാറാവുന്നതാണ് അതുകൊണ്ടുതന്നെ അതിനെ ഇൻറർ ഓഫീസ് മെമ്മോറാണ്ടം എന്ന് വിളിക്കാതെ ലെറ്റർ റിപ്പോർട്ട് എന്ന് വിളിക്കുന്നു ചില സന്ദർഭങ്ങളിൽ ലെറ്റർ റിപ്പോർട്ട് ഓർഗനൈസേഷൻറെ പുറത്തും നൽകുന്നു ഒരു മെമ്മോയും ലെറ്റർ റിപ്പോർട്ടും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം ലെറ്റർ റിപ്പോർട്ടിൽ കോംപ്ലിമെന്ററി ക്ലോസ് ഉപയോഗിക്കുകയും മെമ്മോയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു ഒരു കത്തിൻറെ രീതിയിൽ തന്നെ അത് എഴുതപ്പെടുന്നതിനാലാണ് കോംപ്ലിമെന്ററി ക്ലോസ് ഉപയോഗിക്കുന്നത് നാം മിക്കവാറും കേൾക്കുന്ന ഒരു വാക്കാണ് സർക്കുലർ സർക്കുലർ ലഭിച്ചു സർക്കുലർ പരിശോധിക്കണം എന്നിങ്ങനെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സർക്കുലർ എന്താണ് അത് മെമ്മോ ലെറ്റർ റിപ്പോർട്ട് എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണോ സർക്കുലർ ബിസിനസ് എഴുത്തിൻറെ ഭാഗമാണ് ഒരു സർക്കുലർ ഒരു സ്ഥാപനത്തിൽ മാത്രം വിതരണം ചെയ്യുന്നതാണ് ഒരു സ്ഥാപനത്തിൽ മാത്രം ആയിരിക്കുമ്പോൾ തീർച്ചയായും അത് സ്ഥാപനത്തിൻറെ പോളിസി തീരുമാനങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഒരു അവബോധം നൽകുക എന്നീ ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അതിൽ ഉപയോഗിക്കുന്ന ഭാഷ അത്ര കർക്കശമായിരിക്കുകയില്ല മാത്രമല്ല അത് ഔപചാരികവും അതേസമയം അനൌപചാരികവും ആയിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് വിവിധതരത്തിലുള്ള സർക്കുലറുകൾ ഉണ്ടാകും സർക്കുലറിലെ പ്രധാന ഉദ്ദേശം ആളുകളെ വിവരങ്ങൾ അറിയിക്കുക ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് പൊതു താൽപ്പര്യങ്ങളെ സംബന്ധിച്ചും സർക്കുലറുകൾ പ്രതിപാദിക്കുന്നുണ്ട് പൊതുജന താൽപര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന സർക്കുലറുകൾ സ്ഥാപനത്തിൻറെ പുറത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്താറുണ്ട് പുതിയ പോളിസികൾ പ്രവർത്തനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടാകും അതുകൊണ്ടുതന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കുലർ മെമ്മോ എന്നിവയിൽ ഏത് വേണമെന്ന് ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുക്കണം ആകയാൽ മെമ്മോ നൽകുന്നത് സ്ഥാപനത്തിൻറെ ഭാഗമായ ജോലിക്കാരുടെ ഇടയിൽ മാത്രമാണ് സാധാരണഗതിയിൽ മെമ്മോ വളരെ കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്നാൽ അനേകം പ്രേക്ഷകരെയും സ്ഥാപനത്തിൻറെ പുറത്തുള്ളവരെയും അഭിസംബോധന ചെയ്യുവാനായി സർക്കുലർ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം വിവിധ തരത്തിലുള്ള സർക്കുലറുകൾ ഏതെല്ലാമാണ് ചില സർക്കുലറുകൾ വിവരദായകമാണ് അതുകൊണ്ടുതന്നെ അത് വളരെ അധികം വസ്തുതാപരമായിരിക്കും അതിന് ചിലപ്പോൾ മൂന്ന് ഖണ്ഡികകൾ വരെ ഉണ്ടാകാം ആദ്യത്തേത് ആമുഖവും അതിനുശേഷം നിങ്ങൾ കൈമാറുന്ന പ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തുക നൽകുന്ന വിവരങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന കാരണത്താൽ സർക്കുലറിൽ എന്താണെന്ന് അറിയുവാൻ ആളുകൾ വളരെയധികം താല്പര്യപ്പെടുന്നു അതൊരു പുതിയ കാര്യത്തെ സംബന്ധിച്ചുള്ള ആയിരിക്കുമല്ലോ അടുത്തത് പബ്ലിക് സർക്കുലർ ഉത്തരം സർക്കുലറുകൾ പൊതുവായ അവബോധം നൽകുവാൻ ഉള്ളതാണ് ഉദാഹരണത്തിന് അധ്യാപകർക്കിടയിൽ അതായത് എല്ലാ അധ്യാപകരേയും ബാലവേലയുടെ പോളിസികളെ സംബന്ധിച്ച് അവബോധം നൽകുവാനുള്ള സർക്കുലർ ഉത്തരം സർക്കുലറുകൾ ഉന്നത മേഖലകളിൽനിന്ന് താഴെയുള്ള എല്ലാ ആളുകളിലേക്ക് എത്തുന്നു ആയതിനാൽ ഇത് വിവിധ കാറ്റഗറിയിലുള്ള അനവധി ആളുകളെ അറിയിക്കുവാനായി ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് സാധാരണഗതിയിൽ സർക്കുലറുകൾ ഒരുപാട് ദൈർഘ്യമുള്ളതാകുകയില്ല എന്നാൽ ആവശ്യമനുസരിച്ച് ദൈർഘ്യം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ഉണ്ടാകും കൂടാതെ ഓഹരി ഉടമകൾ അനേകം ഗുണഭോക്താക്കൾ എന്നിവരുമുണ്ടാകും ആകയാൽ മുകളിൽ പറഞ്ഞ ആളുകൾ ഉൾപ്പെടുത്തുന്ന പൊതു താല്പര്യത്തെ സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലറുകൾ അനേകം ആളുകൾക്ക് വേണ്ടി ഉള്ളതാകയാൽ അതിന് ദൈർഘ്യം ഉണ്ടായിരിക്കും അനേകം ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിനാൽ അതിൽ ഉപയോഗിക്കുന്ന ഭാഷ വാക്കുകൾ എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ഒരു ഔദ്യോഗിക സർക്കുലർ വളരെ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കണം സർക്കുലറിൻറെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനുശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വായിക്കുക അതായത് റിവൈസ് ചെയ്യുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് എല്ലാം ബിസിനസ് രചനകൾക്കും റിവിഷൻ അത്യാവശ്യമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തയ്യാറാക്കുന്ന ഔദ്യോഗിക എഴുത്തുകൾ ആകയാൽ അതിൽ വന്നുകൂടുന്ന തെറ്റുകൾ സ്ഥാപനത്തിനെ ബാധിക്കുന്നതിനാൽ തുടർ വായനകളിലൂടെ തെറ്റുകൾ തിരുത്തുക അക്ഷരത്തെറ്റുകൾ വ്യാകരണ പിശകുകൾ വാചക ഘടന വാചകങ്ങളെ തരംതിരിക്കുന്ന രീതി എന്നിവ ശരിയായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്നും ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക ഇവയെല്ലാം പരിശോധിച്ച ശേഷം നിങ്ങളുടെ സർക്കുലർ തയ്യാറാക്കാം സർക്കുലറിൻറെ മുകളിൽ മധ്യഭാഗത്തായി നിങ്ങളുടെ സ്ഥാപനത്തിൻറെ പേരും അതിനുശേഷം സർക്കുലർ എന്നും എഴുതുക അതേ തുടർന്ന് ഉള്ളടക്കവും അവസാനമായി നിങ്ങളുടെ കയ്യൊപ്പും ഉൾപ്പെടുത്തുക മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചതിനുശേഷം നിങ്ങളുടെ സർക്കുലർ തയ്യാറാക്കി മറ്റുള്ളവർക്ക് കൈമാറാവുന്നതാണ് അയക്കുന്നതിന് മുമ്പ് തെറ്റായ പദപ്രയോഗങ്ങൾ അക്ഷരതെറ്റുകൾ വ്യക്തതയില്ലാത്ത വാചകങ്ങൾ ആശയവിനിമയത്തിന് തടസ്സമുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്നിവ വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ബിസിനസ് എഴുത്തുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാം അനുദിന ജീവിതത്തിന് ആവശ്യമായ ചില പ്രധാനപ്പെട്ട എഴുത്തുകളെ സംബന്ധിച്ചാണ് അടുത്ത പാഠഭാഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഏവർക്കും നന്ദി